നമസ്തേ കഴിഞ്ഞ ഏതാനും Session കളിൽനമ്മൾfinancial statement analysis ചർച്ച നടക്കുകയുണ്ടായി നമ്മൾ horizontal vertical analysis ratios ഒക്കെ പറ്റിയുള്ള ചർച്ചകൾ ആണ് നടത്തിയത് Last ക്ലാസ്സിൽഎങ്ങനെയാണ് horizontal analysis ചെയ്യുക എന്ന ചർച്ചനടത്തി നമ്മൾ ഒരു comparative statement ഉണ്ടാക്കിയിരുന്നു ഇന്ന് നാം ഒരു common size statement ഉണ്ടാക്കാൻ പോവുകയാണ് ഒരിക്കൽ കൂടി ഒരുcomparative statement നോക്കുക Refer Slide Time 0105 നമ്മൾ P and L balance sheet എന്നിവയിൽഉള്ള മാറ്റങ്ങളും ശതമാന മാറ്റങ്ങളും കണ്ടുപിടിച്ചു അതിനുശേഷം Cash Flow Statements കളുടെ Comparative form ചർച്ചഉണ്ടായി ഇത് ഒരു കോമൺസെൻസ് PL ACകോമൺസെൻസ് BaLance Sheet എന്നിവയാണ്

ഇവിടെ ചെയ്യാൻ പോകുന്നത് vertical analysis ആണ് പേര് സൂചിപ്പിക്കും പോലെ ഇത് vertical അനാലിസിസ് ആണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഐറ്റം base ആയി എടുക്കുന്നു അതിനുശേഷം എല്ലാ ഐറ്റംസും ആ പ്രധാനപ്പെട്ട item വും തമ്മിലുള്ള ശതമാന ബന്ധം കണ്ടു പിടിക്കുന്നു രണ്ടു വർഷത്തെയുംകണ്ടുപിടിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് common size സ്റ്റേറ്റ്മെൻറ് വരയ്ക്കുന്നത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ് 2കൊല്ലത്തെ PL ACBalance Sheet Cash Flow Statement എന്നിവയുടെ ഒരു Print out എടുക്കുക PL എടുക്കുകയാണെങ്കിൽ രണ്ട് വിലകൾ താരതമ്യം ചെയ്യാൻ പറ്റും Actual വിലകൾ താരതമ്യം ചെയ്യാതെ നമ്മൾ ആദ്യം ശതമാനമാക്കണം ടോട്ടൽ Revenue from operations എന്നതിനെ base എടുക്കാം ഓരോന്നും ടോട്ടൽ revenue from operations ൻറെ എത്രത്തോളം ശതമാനമാണെന്ന്കണ്ടുപിടിക്കണം operating and direct expenses എന്നതിൻറെ സംഖ്യയായ 2141 നെ revenue from operations കൊണ്ട് ഹരിക്കണം അപ്പൊ operating ചെലവുകൾ 62 ആണ് Total revenue 100 ആയിരിക്കും 62 ശതമാനം ചെലവഴിച്ചു എല്ലാ സംഖ്യകളുടെയും ഇത്തരത്തിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത് Gross Revenue ഒന്ന് ആയിരിക്കും ഇതുപോലെ നെറ്റ് revenue ഒന്നായിരിക്കും എല്ലാ സംഖ്യകളും Total Revenue എന്നതിൻറെ ശതമാനമാക്കി എഴുതണം Operating expenses എന്നത് Revenue എന്നതിൻറെ63 ആണ് Common size സ്റ്റേറ്റ്മെൻറ് ഉണ്ടാകുമ്പോൾ ടോട്ടൽ 100എടുക്കും Operating expenses മാർച്ച് മാസം 17ന് 63 ശതമാനവും കഴിഞ്ഞവർഷം മാസം 16ന് 57 ശതമാനവുംആണ് എത്രത്തോളം ശതമാനം കൂടിയെന്ന് പരിശോധിക്കുക Operating expenses താഴേക്ക് വന്നിട്ടില്ല എന്നാൽറവന്യൂ താഴേക്ക് വന്നു അതുകൊണ്ടാണ് ഇവിടെ 57 63 ശതമാനമായി കൂടിയത് എംപ്ലോയി ബെനഫിറ്റ് സ്വല്പം മുകളിലേക്ക് പോയി Depreciation ശതമാനവും സ്വല്പം മുകളിലേക്ക് പോയി profit before tax 10 എന്നത് പത്ത് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായി profit after tax എന്നത് 9 ശതമാനത്തിൽ നിന്ന് 4 ആയി നമ്മൾ വളരെയധികം ratios കണ്ടുപിടിക്കുന്നു നമ്മൾ net profit ratios കണ്ടുപിടിച്ചു ഇതുപോലെ ഓപ്പറേറ്റിങ് എക്സ്പെൻസ് ടു Sales എന്ന Ratio കണ്ടുപിടിക്കാൻ സാധിക്കും എംപ്ലോയിബെനിഫിറ്റ് സെയിൽസ് നിൻറെ എത്രത്തോളം ശതമാനമാണ് തുടങ്ങിയ കാര്യങ്ങൾഎല്ലാം തന്നെ കോമൺ Size statement ൽഉണ്ടായിരിക്കും ഇൻഡസ്ട്രിയിലെ മറ്റുള്ള കമ്പനികളുമായി താരതമ്യം ചെയ്യാൻ ഇപ്പോൾ സാധിക്കും അതുപോലെ നമ്മുടെ ചെലവുകളുംIndustry Average മായും താരതമ്യം ചെയ്യാൻ ഇപ്പോൾ സാധിക്കും ഇതാണ് common size P and L അല്ലെങ്കിൽ common size statement of revenue ഇനി ബാലൻസ് Sheet പരിശോധിക്കാവുന്നതാണ് Balance ഷീറ്റിൽനമുക്ക് രണ്ടു കൊല്ലത്തെ figures ഉണ്ട് നേരത്തെ total revenueഎടുത്തപോലെ Balance ഷീറ്റിൽ Total Capital and Liabilitiesഎന്നത് base ആയിഎടുക്കണം ടോട്ടൽ ഓഫ് ക്യാപിറ്റൽ liabilities ആണ് ബൈസായി എടുക്കേണ്ടത് അത് തന്നെയാണ് assets ൻറെ വിലയും ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ liabilities 100 ആണ് Equity Share Capital എന്നത് 3 ആണ് നല്ലൊരു സൈൻ ആണോ അതോ ചീത്ത സൈൻആണോ തീർച്ചയായും നല്ലൊരു സൈൻ വളരെയധികംreserves ഉണ്ട് മൂന്ന് ശതമാനം പണമാണ് ഓണേഴ്സ് കൊണ്ടുവരുന്നത് അത് 44 reserves ഉണ്ടാക്കുന്നു അങ്ങനെ ടോട്ടൽ Sharae holders Funds ഇപ്പോൾ 47ശതമാനമായി long term borrowings 32 ശതമാനം ആയിരുന്നു ഇപ്പൊ 21 മാണ് total non current liabilities 33 ശതമാനം ആയിരുന്നു ഇപ്പൊ 24 മാണ് Short term borrowings എന്നതിൽ വർധനവുണ്ടായി 0 ശതമാനം ആയിരുന്നു ഇപ്പൊ 7 മാണ് trade payables 7 എന്നതു 20 ആയി current liabilities എന്നതു താഴേക്ക് വന്നു അങ്ങനെ total current liabilities എന്നതു 20 എന്നതിൽനിന്ന് 28 ശതമാനം എന്നസംഖ്യ യായി Tangible asasets Toatl Assets ൻറെ 80 ആണ് ഇത്നല്ല sign ഇൻ ആണ് ഷിപ്പിംഗ് കമ്പനി കൂടുതൽ കപ്പലുകൾ വാങ്ങിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നു അതുകൊണ്ടാണ്ഇവിടെ 80 ശതമാനം എന്ന സംഖ്യ ആയത് ബാക്കിയുള്ള സംഖ്യകൾ ഒക്കെ ചെറുതാണെന്ന് കാണാം Cash equivalents ഏകദേശം 10 ഉണ്ട് അത്രത്തോളം കാശ് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം Cash അധികം ആണോ Total Current Asset 17 ആയിരുന്നു ഇപ്പോൾ അത് 19 മായി പ്രധാനമായും ക്യാഷും മറ്റു small കറൻറ് assets ഉംമാണ് ഇതൊരു Common Size Balancesheet ആണ് Coming ക്ലാസുകളിൽ നമ്മൾ Industry ലെ മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യും നമുക്ക് Cash Flow Statement ലേക്ക് പോകാം രണ്ടു വർഷത്തെ ക്യാഷ് Flow Statement നോക്കുക Denomiantor ടോട്ടൽ ക്യാഷ് generated എടുക്കണം അതിനുവേണ്ടി ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കണം ടോട്ടൽ base എടുക്കണം ഇവിടെ ആകെ മൂന്ന് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ Cash from Operations വലിയ തുകയാണ് Cash from financing acativities നെഗറ്റീവ് ആണ് ഇവിടെ ഇന്ത്യയിലെ അഞ്ച് ഷിപ്പിംഗ് കമ്പനി കളുടെ financial statements കാണാൻസാധിക്കുന്നതാണ് ഇപ്പോൾ shipping corporation of India സംബന്ധിച്ചാണ് ചർച്ച നടത്തിയത് Gujarat Pipavav GE shipping Reliance Naval Shreyas shipping ഇങ്ങനെയുള്ള കമ്പനികളുടെ Finnacial statements ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഷിപ്പിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യാണ് industry leader അവരുടെ turnover മറ്റുള്ള കമ്പനികളുടെ turnover എന്നതിനേക്കാൾഅധികമാണ് ഷിപ്പിംഗ് കമ്പനികളുടെ reported net profit നോക്കുകയാണെങ്കിൽ ഷിപ്പിങ് കോർപ്പറേഷൻ എന്നതിൻറെ PROFIT 135 കോടി മാത്രമാണ് GE shipping എന്നകമ്പനിക്ക് കൂടുതൽ PROFIT ഉണ്ട് Reliance naval എന്നകമ്പനിക്ക് വലിയ നഷ്ടമാണ് പക്ഷേ അബ്സല്യൂട്ട് Figures താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്നാൽ base വ്യത്യാസമാണ് അതുകൊണ്ട് ശതമാനമാക്കി മാറ്റണം നാം എല്ലാ സംഖ്യകളെയും സെയിൽസ് ടേണോവർ കൊണ്ട്ഹരിക്കുന്നു ശതമാനം ആക്കി മാറ്റാം ഞാൻ Actual figures hideചെയ്യുകയാണ് Actual figures താരതമ്യംചെയ്യുന്നതിനേക്കാൾ ബുദ്ധിപരമായ കാര്യം ഒരു കോമൺസെൻസ് സ്റ്റേറ്റ്മെൻറ് രൂപത്തിൽ പരിശോധിക്കൽ ആണ് നമ്മൾക്ക് ഓരോന്നായി പരിശോധിക്കാം Net Sales ഇവിടെ കൊടുത്തിട്ടുണ്ട് Raw materials കാര്യമായിട്ട് ഇല്ല നമ്മൾ അഞ്ച്കമ്പനികളുടെ figures എടുക്കുന്നു അങ്ങനെ വരുമ്പോൾ താരതമ്യംകൂടുതൽ നല്ലതാകുന്നു നമുക്ക് Raw material ചെലവ് എടുക്കാവുന്നതാണ് പൊതുവേ raw material cost അധികമില്ല reliance naval കമ്പനിക്കാണ് വളരെയധികം Raw material വരുന്നത് Miscellaneous എന്ന ചെലവും ആ കമ്പനിക്കാണ് വളരെ അധികം വരുന്നത് shipping corporation കമ്പനിക്ക് പ്രധാനപ്പെട്ട ചെലവ് other manufacturing expenses ആണ് Profit പരിശോധിക്കുകയാണെങ്കിൽ 22 ആണ് ഷിപ്പിങ് കോർപ്പറേഷൻ കമ്പനിയുടെ ലാഭം Gujarat Pipavav കമ്പനിയുടെ ലാഭം61 ആണ് GE shipping കമ്പനിയുടെ ലാഭം 43 ആണ് reliance കമ്പനിയുടെ ലാഭം4 ആണ് Shreyas shipping കമ്പനിയുടെ ലാഭം14 ആണ് Reliance എന്ന കമ്പനിയുടെ Interest expenses വളരെയധികമാണ് Revenue ൻറെ 110 ആണ് അതുകൊണ്ടാണ് PBDT 97 ശതമാനം ആയത് മറ്റുള്ള കമ്പനികളുടെ പലിശ എന്ന ചെലവിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല ഏകദേശം ഒരുപോലെയാണ് Depreciation 16 ആണ് റിലയൻസ് എന്ന കമ്പനിയുടെ Depreciation 16ശതമാനമാണ് അധികമാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് വളരെ വിലപിടിപ്പുള്ള കപ്പലുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ Interest expenses വളരെയധികമാണ് profit before tax എന്നത് 5 മാത്രമാണ് പക്ഷേ profit before taxരണ്ട് കമ്പനികൾക്ക് നല്ലതാണ് Gujarat Pipavav കമ്പനിക്കും GE shipping കമ്പനിക്കും പക്ഷേ Reliance Naval കമ്പനിക്ക് വളരെ വലിയനെഗറ്റീവ് സംഖ്യയാണ് profit before tax 5 Shipping കമ്പനികൾ ആണെങ്കിൽ പോലുംഅവരുടെ operations വ്യത്യാസം വരാം അതുകൊണ്ടാണ് profits ൽ വ്യത്യാസം വരുന്നത് ഇപ്പോൾ പ്രോഫിറ്റ് ബിഫോർ tax സംഖ്യകളാണ് profit after tax എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ Gujarat Pipavav and GE shipping എന്നിങ്ങനെയുളളരണ്ടു കമ്പനികൾക്ക് good profitability ഉണ്ട് ഇനി balance ഷീറ്റുകൾ പരിശോധിക്കാവുന്നതാണ് വ്യത്യസ്തങ്ങളായ കമ്പനികൾവ്യത്യസ്തമായ രീതിയിൽ fund ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് Balance sheet analysis ചെയ്യുമ്പോ ടോട്ടൽ Assets അല്ലെങ്കിൽ Total liabilities മായിതാരതമ്യം ചെയ്യണം GE shipping കമ്പനിയുടെ നാം ചെയ്തു കഴിഞ്ഞു മറ്റുള്ള കമ്പനികളുടെ ചെയ്യണം Shreyas എന്ന കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽവളരെ low യാണ് മറ്റുള്ള കമ്പനികളുടെ ഷെയർ ക്യാപിറ്റൽ ഏകദേശം ഒരേ Range ൽ GE എന്ന കമ്പനിയുടെ ഷെയർക്യാപിറ്റൽ ഏകദേശം 150 crore യാണ് reserves ഷിപ്പിങ് കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് വളരെ അധികം ഉണ്ട് അതുപോലെ GE കമ്പനിക്ക് വളരെ അധികം reserves ഉണ്ട് Reliance കമ്പനിക്ക് reserves വളരെയധികം ഉണ്ട് ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് റിലയൻസ് industries എന്ന ക്കമ്പനി അല്ല Reliance Naval എന്നകമ്പനി Anil Ambani group കമ്പനിയാണ് Shipping Corporation എന്ന കമ്പനിക്ക് net worth വളരെയധികം ആണ് GE കമ്പനിക്ക് net worth വളരെയധികം ആണ് മറ്റുള്ള കമ്പനികൾക്ക് net worth അധികമില്ല വ്യത്യസ്ത രീതികളിലുള്ള ഫിനാൻസിംഗ് കാണാൻ പറ്റും രണ്ട് കമ്പനികൾ Equity ഫിനാൻസ് കമ്പനികളാണ് GE shippingReliance എന്ന കമ്പനികളുടെ Debt വളരെയധികം ആണ് Shreyas കമ്പനിക്ക്debt അധികമില്ല കമ്പനികളുടെഗ്രോസ് ബ്ലോക്ക് കാണാൻ സാധിക്കും Shipping Corporation എന്ന കമ്പനിയുടെഗ്രോസ് ബ്ലോക്ക് വളരെയധികമാണ് എന്തുകൊണ്ടെന്നാൽ കമ്പനിക്ക് വളരെഅധികം കപ്പലുകൾ ഉണ്ട് മറ്റുള്ള കമ്പനികൾക്ക് അധികം ഗ്രോസ് ബ്ലോക്ക് ഇല്ല മറ്റുള്ള കമ്പനികൾക്ക് കൂടുതൽ കാര്യക്ഷമമായി asset കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു ഇനി actual figures ശതമാനമാക്കി മാറ്റാവുന്നതാണ് shipping corporation എന്ന കമ്പനിക്ക് നാലു ശതമാനംമാത്രമാണ് Share Capital ഉള്ളത് ആ കമ്പനിക്കുവളരെയധികം Reserves ഉണ്ട് Gujarat Pipavav എന്ന കമ്പനിക്ക് അധികം Reserves ഉണ്ട് എന്നാൽ ആ കമ്പനിക്ക് debt ഒട്ടും തന്നെ ഇല്ല Share CapitalReserves എന്നിവ ഉപയോഗിച്ചാണ് ആ കമ്പനിഫണ്ട് കണ്ടെത്തുന്നത് അവരുടെ Net worth 100 ആണ് shipping corporation എന്ന കമ്പനിക്ക് networth 63 ആണ് Secured Loans 37 ആണ് GE shipping എന്ന കമ്പനിക്ക് networth 57 ആണ് Secured Loans 43 ആണ് shipping corporation എന്ന കമ്പനിക്ക് Debt equity ratio 3763 ആണ് Gujarat Pipavavഎന്ന കമ്പനിക്ക് Debt equity ratio 0 ആണ് GE shipping എന്ന കമ്പനിക്ക് Debt equity ratio 4357 ആണ് Relianceഎന്ന കമ്പനിക്ക് Debt equity ratio 8812 ആണ് Shreyasഎന്ന കമ്പനിക്ക് Debt equity ratio 3961 ആണ് Gross ബ്ലോക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് GE shipping ഗ്ലോസ് ബ്ലോക്ക് 146 ശതമാനമാണ് അവരുടെ കപ്പലുകൾ എല്ലാം പഴക്കംചെന്ന്ത്ആണ് അതുകൊണ്ട് അവർക്ക് gross blockവളരെ അധികം ഉണ്ട് കമ്പനിക്ക് വളരെയധികം accumulated depreciation ഉണ്ട് അതുകൊണ്ട് നെറ്റ് ബ്ലോക്ക് 105 ആണ് Reliance Naval എന്ന കമ്പനിക്ക് Capital work in progressഉണ്ട് Shipping Corporation എന്ന കമ്പനിക്ക് Current liabilities വളരെ അധികമാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് വളരെയധികം ലോൺ തിരിച്ചടക്കാൻ ഉണ്ട് Shipping Corporation എന്ന കമ്പനിക്ക് total miscellaneous expenses 0 ആണ് net current assets എല്ലാ കമ്പനികൾക്കും ഒരുപോലെയാണ് reliance എന്ന കമ്പനിക്ക് വളരെ വലിയ ലോസ് ഉണ്ട് എന്തുകൊണ്ടെന്നാൽ അവിടെ Networth അധികം അല്ല ഒരുഇൻഡസ്ട്രിയിലെകമ്പനികളെ താരതമ്യം ചെയ്യാൻ comparative balance sheet ഉപയോഗിക്കാൻ സാധിക്കും